നമുക്ക് അഭികാമ്യമായ ചില വ്യവഹാരക്രമങ്ങൾ കൈവരിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് ഒരു നിശ്ചിത സമയത്തേക്ക് താപനില കുത്തനെ വർധിപ്പിക്കണം അതിനുശേഷം സ്ഥിരമാക്കി നിലനിർത്തണം അതിനുശേഷം വീണ്ടും കുത്തനെ കുറയ്ക്കണം എന്ന് വെക്കുക ഇത് എങ്ങനെയാണ് കൈവരിക്കുക നമുക്ക് എന്താണ് വേണ്ടത് അതുമായി താരതമ്യം ചെയ്താണ് ഇത് കൈവരിക്കേണ്ടത് താരതമ്യം ചെയ്യാനായി ഔട്ട്പുട്ട് നൽകേണ്ടതുണ്ട് സെൻസർ ആണ് ഇത് ചെയ്യുന്നത് ക്ഷമിക്കണം ഒന്നു പുറകോട്ട് പോകാം താരതമ്യം ചെയ്യുമ്പോൾ എറർ അഥവാ പിശക് ഉണ്ടാകുന്നു ഈ എറർ കൺട്രോളർനു നൽകുമ്പോൾ എന്ത് കൺട്രോൾ ഇൻപുട്ട് നൽകിയാൽ ആണ് എറർ കുറയ്ക്കാൻ ആകുക എന്ന് കൺട്രോളർനു അറിയാൻ സാധിക്കും യഥാർത്ഥത്തിൽ ഇത് ഒരു കമ്പ്യൂട്ടിംഗ് സിസ്റ്റം അഥവാ കണക്കുകൂട്ടുന്ന ഒരു വ്യവസ്ഥ ആണ് അതിനാൽ ഇവിടെ ഇൻപുട്ട് യഥാർത്ഥത്തിൽ യുക്തിപരമായി ഉള്ളതാണ് മറിച്ച് ഭൌതികപരമായിട്ടുള്ളതല്ല പ്ലാന്റിനു നൽകുന്നതിനുമുമ്പ് ഏതെങ്കിലും പ്രൊസസ്സ് വേരിയബിൾഇൽ ഉദാഹരണത്തിന് ബാഷ്പത്തിന്റെ ഒഴുക്കിലെ തോതിന്റെ മാറ്റം ചലനത്തിലെ മാറ്റം വാൽ വിൻറെ മാറ്റം തുടങ്ങിയവയിൽ മാറ്റം വരുത്തണമെങ്കിൽ എന്തെങ്കിലും ഭൌതികമായ മാറ്റം വരേണ്ടതുണ്ട് ഇതിനായി ആക്ച്ചുവെറ്റർ ആവശ്യമുണ്ട് ആക്ച്ചുവെറ്റർൻറെ ജോലി എന്നത് കൺട്രോളർൻറെ നിർദ്ദേശപ്രകാരം യുക്തിപരമായ മാറ്റത്തിന് ആനുപാതികം ആയിട്ടുള്ള ഭൌതികപരമായ മാറ്റം വരുത്തുക എന്നതാണ് ഈ ഭൌതികപരമായ മാറ്റം സംഭവിക്കുകയാണെങ്കിൽ എറർ കുറയുന്ന വിധത്തിൽ പ്ലാൻറ് ഔട്ട്പുട്ട് മാറും ഇപ്പോൾ നാം മുഖ്യമായ ഘടകങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു സെൻസർ ആക്ച്ചുവെറ്റർ കൺട്രോളർ എന്നിവയാണവ ലെവൽ 2 വിൽ നിന്നാണ് ആവശ്യമായ ഈ മൂല്യം നമുക്ക് ലഭിക്കുന്നത് അതായത് സൂപ്പർവൈസറി കൺട്രോളർ ആണ് ആവശ്യമായ മൂല്യം ആദ്യം കണക്കാക്കുന്നത് ഇവിടെയാണ് ലെവൽ 0 ഉള്ളത് ഇവിടെ ആണ് ലെവൽ 1 ഇവിടെ ആണ് ലെവൽ 2 ഇതാണ് ഇവ തമ്മിലുള്ള ബന്ധം ഇനി നമുക്ക് ഓരോ ലവലിനെപറ്റിയും സംസാരിക്കാം ആദ്യം സെൻസർൻറെ ജോലി എന്താണെന്ന് നോക്കാം ഒരു ഭൌതിക വേരിയബിൾ കൃത്യമായി പ്രതിനിധീകരിക്കുന്ന ഒരു വിവരം നിർമ്മിക്കുക എന്നതാണ് സെൻസറിനൻറെ ജോലി അതിനാൽ തീർച്ചയായും ചില വേരിയബിളുകളുടെ പ്രവർത്തനം ആവശ്യമാണ് ഈ വിവരം ആദ്യം ഇലക്ട്രിക്കൽ രൂപത്തിൽ ആണ് ലഭ്യമാകുക അതിനുശേഷം ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഉപയോഗിച്ച് ഇത് ശുദ്ധമായ വിവരം ആയി പരിവർത്തനം ചെയ്യുന്നു ഇതിന് എന്താണ് അനിവാര്യമായിട്ടുള്ളത് ഇത് വളരെ എളുപ്പമാണ് ആദ്യമായി നിങ്ങൾക്ക് വേണ്ടത് ഭൌതികമായ വസ്തുക്കളെ മറ്റെന്തെങ്കിലും രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്ന ഒന്നാണ് ഉദാഹരണത്തിന് താപം പരിവർത്തനം ചെയ്തു വൈദ്യുതി ഉൽപാദിപ്പിക്കാം ഇവിടെ സെൻസിംഗ് എലമന്റിനു ഇതിനെ റെസിസ്റ്റൻസ്സിലെ മാറ്റമായി പരിവർത്തനം ചെയ്യാവുന്നതാണ് റെസിസ്റ്റൻസ്സിലെ മാറ്റം കൈകാര്യം ചെയ്യാവുന്ന ഇലക്ട്രിക്കൽ രൂപത്തിൽ ആയിട്ടില്ല അതിനാൽ സിഗ്നൽ കണ്ടീഷനിംഗ് ആവശ്യമുണ്ട് അതിനാൽ റെസിസ്റ്റൻസ് ഏതെങ്കിലും ബ്രിഡ്ജിനു നൽകി റെസിസ്റ്റൻസിനു ആനുപാതികമായ വോൾട്ടേജ് ഉൽപ്പാദിപ്പിക്കാവുന്നതാണ് ഇതെല്ലാം അനുപാതികം ആണ് ഇത് ഇതിന് ആനുപാതികം ആണ് ഇത് ഇതിന് ആനുപാതികം ആണ് അവസാനമായി ആയി വോൾട്ടേജ് താപത്തിന് ആനുപാതികം ആണ് വോൾട്ടേജിൽ ധാരാളം കലർപ്പ് നോയിസ് തുടങ്ങിയവ അടങ്ങിയിരിക്കുന്നതിനാൽ കൂടുതൽ കൃത്യതയാർന്ന വോൾട്ടേജ് ലഭിക്കാൻ സിഗ്നൽ പ്രോസസിംഗ് ചെയ്യുകയോ ഇതിൻറെ പ്രഭാവം വർദ്ധിപ്പിക്കുകയോ ചെയ്യാവുന്നതാണ് ഈ സമയത്ത് ഇത് നിങ്ങളുടെ കയ്യിലുള്ള ഇൻഫർമേഷൻ ഭൌതികമായ പ്രൊസസ്സ് വേരിയബിളുമല്ല അതേസമയം എലക്ട്രിക് സിഗ്നലും അല്ല ഇൻഫർമേഷൻ ഒന്നുകിൽ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യാം ഇല്ലെങ്കിൽ ഒരു കൺട്രോളർനു അയച്ചു കൊടുക്കാം അതല്ലെങ്കിൽ ഒരു ഡാറ്റാബേസിൽ ശേഖരിക്കാം ഇത് ഒരു ഡിസ്പ്ലേയോ ഒരു നെറ്റ് വർക്ക് കാർഡോ ആകാം ഇത് വിവരങ്ങൾ അയക്കുന്ന ഒരു നെറ്റ്വർക്ക് ഇൻറർഫേസ് അല്ലെങ്കിൽ വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു ഡിസ്ക് ആകാം സിഗ്നൽൻറെ ഉപയോഗം അനുസരിച്ചു ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത് ആണ് ഇന്ന് സെൻസറിനെകുറിച്ച് സംസാരിക്കുമ്പോൾ അതിൽ ഒരു സെൻസിംഗ് എലമെന്റും ഒരു സിഗ്നൽ കണ്ടീഷനിംഗ് എലമെന്റും ഉണ്ടായിരിക്കും ഇലക്ട്രോണിക്സ്ൻറെ കാഠിന്യം മൂലം സിഗ്നൽ പ്രൊസസിങ് ഇപ്പോൾ സെൻസറിലേക്ക് തന്നെ മാറ്റപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് ഫിൽറ്ററിംഗ് പോലെയുള്ള സിഗ്നൽ പ്രൊസസിങ് ഡിസ്പ്ലേയിൽ ഉപയോഗിക്കാൻ സാധിക്കും ഇതാണ് ഒരു സെൻസർ ഇനി നമുക്ക് ചില ക്യാരക്ടർസ്റ്റിക്സ് നോക്കാം തീർച്ചയായും സെൻസിംഗ് എലമെന്റ് ഉണ്ടായിരിക്കും പരാമർശിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ ഇൻഡസ്ട്രിയൽ സെൻസറിൽ അടിസ്ഥാനപരമായ സെൻസിംഗ് എലമെന്റ് കൂടാതെ സുരക്ഷയ്ക്കായുള്ള തെർമോ കപ്പിൾ പോലെയുള്ള മറ്റു ഘടകങ്ങളും ഉണ്ട് തെർമോ കപ്പിൾ എന്നത് രണ്ടു കഷണം വയറുകൾ ആണ് ഇനി വ്യാവസായികമായി നിങ്ങൾ താപനില അളക്കാൻ ശ്രമിക്കുമ്പോൾ ഈ രണ്ടു കഷണം വയറുകൾ നേരെ തീയിലേക്ക് ഇടുകയില്ല തെർമോവെൽ എന്ന ഒരു ഭാഗമുണ്ട് തെർമോകപ്പിൾ നശിച്ചു പോകാതിരിക്കാൻ ആയി ഈ രണ്ടു വയറുകളും തെർമോവെല്ലിൽ ഇട്ടു ഫർണസിൽ വയ്ക്കുക സെൻസിംഗ് എലമെന്റ് എപ്പോഴും പാക്കേജിങ്ലാണ് വരുന്നത് അവയ്ക്ക് അവയുടേതായ ഡൈനാമിക്സ് ഉള്ളതിനാൽ ലൂപുകളുടെ നിയന്ത്രണ നിർവഹണത്തിൽ പാക്കേജിംഗ്ൻറെ സ്വാധീനം ഉണ്ടാകാം തെർമോവെൽ ആണ് തെർമോകപ്പിളിലേക്ക് ടൈം കോൺസ്റ്റൻറ്റ് പ്രവേശിപ്പിച്ചത് നമുക്ക് സെൻസിംഗ് എലമെന്റും അതിനുശേഷം സിഗ്നൽ കണ്ടീഷനിംഗും സിഗ്നൽ പ്രോസസിംഗും ഉണ്ട് ഇലക്ട്രിക്കൽ രൂപത്തിലേക്ക് മാറ്റുക എന്നതാണ് സിഗ്നൽ കണ്ടീഷനിംഗ്ൻറെ ജോലി കൂടുതൽ മെച്ചപ്പെട്ട പ്രോസസിംഗ് നടത്തുകയാണ് സിഗ്നൽ പ്രോസസിംഗ്ൻറെ ജോലി ഉദാഹരണത്തിന് ലീനിയറൈസേഷൻ ഒരു സിഗ്നൽ അതിൻറെ വർഗ്ഗം അഥവാ സ്ക്വയർ അനുസരിച്ച് മാറുന്നുണ്ടെന്ന് വയ്ക്കുക അതിനെ ലീനിയർ വേരിയബിൾ ആക്കി മാറ്റുവാൻ വർഗ്ഗമൂലം അഥവാ സ്ക്വയർറൂട്ട് ഉപയോഗിക്കുന്നു നോയ്സ് ഒഴിവാക്കാൻ നമുക്ക് ഫിൽട്ടർ ഉപയോഗിക്കാം നമുക്ക് ബയാസ് ശേഖരിക്കാം ബയാസ് വർദ്ധിപ്പിക്കാം ഇങ്ങനെ പലതും ചെയ്യാം പൊതുവേ സിഗ്നൽ കണ്ടീഷനിംഗ് എന്നാൽ ഇലക്ട്രിക്കൽ രൂപത്തിലേക്ക് മാറ്റുക എന്നാണർത്ഥം പൊതുവേ അനലോഗ് രൂപത്തിലാണ് സിഗ്നൽ പ്രോസസിംഗ് അനലോഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ ആകാം ആദ്യം ഇലക്ട്രോണിക് സിഗ്നൽ കണ്ടീഷനിങ്ങും അതിനുശേഷം ഡിജിറ്റൽ പ്രോസസിങ്ങും ആണുള്ളത് ഡിജിറ്റൽ പ്രോസസിംഗ് പലതരത്തിലുണ്ട് ഡിജിറ്റൽ പ്രോസസിംഗ് വഴി ഡയഗ്നോസ്റ്റിക്സ് കാലിബ്രെഷൻ കോൺഫിഗറേഷൻ ഇവയെല്ലാം ചെയ്യാനാകും ഇതു വളരെ ആധുനികമായ പ്രവർത്തിയാണ് നിങ്ങളുടെ കയ്യിൽ മൈക്രോപ്രൊസസ്സർ ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടിംങിനുള്ള വളരെയധികം പ്രാപ്തി ഉണ്ടെന്നാണ് അർത്ഥം അതിനാൽ ഫിൽട്ടറിങ്ങിനെകാളും വളരെയധികം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനാകും ഉദാഹരണത്തിന് തെർമോകപ്പിൾ വയർ മുറിഞ്ഞിട്ടുണ്ടോ സെൻസർ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നെല്ലാം അറിയാൻ സാധിക്കും ഇതാണ് ഡയഗ്നോസ്റ്റിക്സ് സെൻസർ ക്യാരക്ടർസ്റ്റിക്സ് ചിലപ്പോൾ താഴ്ന്നു പോകാറുണ്ട് ഉദാഹരണത്തിന് സെൻസർ ഒരു ബയാസ് വികസിപ്പിച്ചു എന്ന് വിചാരിക്കുക നിങ്ങൾക്ക് അൽഗോരിതം ഉപയോഗിച്ചു ബയാസ് കണ്ടെത്താൻ ആകും സെൻസറിന് സ്വന്തമായി ഈ വിവരം പുറത്തേക്ക് അയയ്ക്കാനാകും അതല്ലെങ്കിൽ സെൻസറിൽനിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ ആകും ഇതിലെ അളവുകൾ കൂടുതൽ കൃത്യതയ്ക്കു വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും അതല്ലെങ്കിൽ അതിന് സ്വന്തമായ കോൺഫിഗറേഷൻ മാനേജ്മെൻറ് ചെയ്യാൻ സാധിക്കും നമുക്ക് ആവശ്യമുള്ള രീതിയിൽ രൂപപ്പെടുത്താവുന്ന പൊതുവായ ഉപകരണങ്ങളാണ് ഇന്ന് ലഭ്യമായിട്ടുള്ളത് ഇതിൽ ഒരു ഫിൽറ്റർ ഉണ്ടെങ്കിൽ എന്തായിരിക്കും ഫിൽറ്ററിലെ ടൈം കോൺസ്റ്റൻസ് ഏതുതരം സിഗ്നൽ ആണ് ഫിൽറ്റർ ചെയ്യപ്പെടുന്നത് ഫിൽറ്റർ ചെയ്യപ്പെടുന്ന സിഗ്നൽൻറെ ബാൻഡ് വിഡ്ത്ത് എന്താണ് എന്നീ കാര്യങ്ങളെ ആശ്രയിച്ചാണ് ടൈം കോൺസ്റ്റന്റ് തീരുമാനിക്കുന്നത് ഒരു ഫ്ലോ സെൻസറിനെ ഫിൽറ്റർ ചെയ്യുമ്പോൾ ആവശ്യം ഉള്ളതിനേക്കാൾ ബാൻഡ് വിഡ്ത്ത് ഒരു ടെമ്പറേച്ചർ സിഗ്നൽ ഫിൽറ്റർ ചെയ്യുമ്പോൾ ആവശ്യമുണ്ട് ഈ ഫിൽട്ടറുകൾ സ്വയമേവ മുൻകൂട്ടി ക്രമീകരിക്കാൻ സാധിക്കും ഇത്തരം കാര്യങ്ങൾ ഡിജിറ്റൽ പ്രോസസ്സിംഗ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രവർത്തിയാണ് കമ്മ്യൂണിക്കേഷൻ അഥവാ ആശയവിനിമയം ഇന്ന് എല്ലാത്തരം സെൻസറുകളും ആശയവിനിമയത്തിന് സജ്ജമാണ് ഒന്നുകിൽ അവയ്ക്ക് ഏതെങ്കിലും നെറ്റ് വർക്കുമായി ബന്ധപ്പെടാൻ സാധിക്കും അല്ലെങ്കിൽ അവയെ ഏതെങ്കിലും നെറ്റ് വർക്കുമായി ബന്ധപ്പെടുത്താൻ സഹായിക്കുന്ന റിമോട്ട് ടെർമിനൽ യൂണിറ്റുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഈ ആശയ വിനിമയ പ്രവർത്തനത്തിനും ഡിജിറ്റൽ പ്രോസസിംഗ് ഉപയോഗിക്കുന്നുണ്ട് അവസാനമായി സിഗ്നൽ പ്രൊട്ടക്ഷനും ട്രാൻസ്മിഷനും അതായത് സുരക്ഷയും കൈമാറ്റവും ആണുള്ളത് എല്ലാറ്റിനും അവസാനം സിഗ്നൽ കൈമാറേണ്ടതുണ്ട് നിങ്ങൾക്ക് ഒരു നെറ്റ്വർക്ക് ഇൻറർഫേസ് അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ വോൾട്ടേജ് റ്റു കറൻറ് കൺവെർട്ടർ ഉപയോഗിക്കാം നിങ്ങൾ 4 20 മില്ലി ആംപിയർ ട്രാൻസ്മിഷൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ വോൾട്ടേജ് റ്റു കറൻറ് കൺവെർട്ടർ ഉപയോഗിക്കാം RA422 പോലെയുള്ള ട്രാൻസ്മിഷനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവയ്ക്കു പ്രത്യേകമായ വോൾട്ടേജ് ലെവലുകൾ ഉണ്ട് ഒരു സാധാരണ ഇൻഡസ്ട്രിയൽ സെൻസർ സിസ്റ്റത്തിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു എന്തൊക്കെ ചെയ്യുന്നു എന്ന് നിങ്ങളെ കാണിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ ഒരു സ്മാർട്ട് ടെമ്പറേച്ചർ സെൻസർ ഒരു കമ്പനിയിൽ നിന്നും വാങ്ങുകയാണെങ്കിൽ ഈ പ്രവർത്തനങ്ങളെല്ലാം അതിൽ കാണാൻ സാധിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത എലമെൻറ് ആയ ആക്ച്ചുവേറ്ററിനെപറ്റി നോക്കാം ആക്ച്ചുവേറ്റർസ് കൺട്രോളർഇൽ നിന്നും ലോജിക്കൽ ഇൻപുട്ട് സ്വീകരിച്ചു ഒരു ഫിസിക്കൽ പ്ലാൻറ് ആയി മാറ്റുന്നു അതാണ് അവർ ചെയ്യുന്നത് ഇനി ഇതിൽ വേരിയബിൾ കൺവെർഷൻ വളരെ ആവശ്യമാണ് ലോജിക്കൽ ഇൻപുട്ട് ലോജിക്കൽ മാത്രമാണ് അവയ്ക്കു പവർ ഇല്ല ഇൻഫോർമേഷൻ മാത്രമേയുള്ളൂ വളരെയധികം പവർ ആമ്പ്ലിഫിക്കേഷൻ ചെയ്യേണ്ടതുണ്ട് ഒരു ഫർണസിലെ താപനില വർദ്ധിപ്പിക്കണമെങ്കിൽ മൈക്രോപ്രൊസസ്സർഇൽ നിന്നും വെറുതെ സിഗ്നൽ നൽകിയാൽ മതിയാവില്ല സിഗ്നൽ എടുത്തു ഫ്യുവൽ ഇഞ്ചക്ഷൻ വാൽവിൽ മാറ്റം വരുത്തി ഫർണസിനു വായു നൽകുന്ന ഫാനിൻറെ വേഗത വർദ്ധിപ്പിക്കണം ജ്വലനത്തിൻറെ തോതും വർദ്ധിപ്പിക്കണം എന്നാൽ മാത്രമേ താപനില വർദ്ധിക്കുകയുള്ളൂ പ്രധാനമായും രണ്ടു കാര്യങ്ങൾ ചെയ്യേണ്ടത് ഉണ്ട് ഒന്നാമത്തേത് വേരിയബിൾൻറെ പരിവർത്തനം രണ്ടാമത്തേത് വലിയ അളവിലുള്ള പവർ ആമ്പ്ലിഫികെഷൻ ഇതാണ് ആക്ച്ചുവെറ്റർ ചെയ്യുന്നത് ഇത് വളരെ പ്രബലമായ ഒരു കാര്യമാണ് എന്ന് മാത്രമല്ല വളരെ സൂക്ഷ്മമായി ഇതിനെ നിയന്ത്രിക്കുക എന്നതു കൂടി വളരെ പ്രധാനമാണ് ഇതിനായി നാം എപ്പോഴും ഫീഡ്ബാക്ക് കൺട്രോൾ ആണ് ഉപയോഗിക്കുന്നത് ആക്ച്ചുവെറ്റർ സ്വയം തന്നെ ഫീഡ്ബാക്ക് കൺട്രോൾ ഉപകരണങ്ങൾ ആണ് അവ സ്വയം ഫീഡ്ബാക്ക് കൺട്രോൾ സ്വീകരിക്കുന്നു ഉദാഹരണത്തിന് ഒരു വിമാനം പറക്കുമ്പോൾ അതിൻറെ കൺട്രോൾ സർഫേസ് പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട് ഇതിനായി വളരെയധികം ഏറോ ഡൈനാമിക് ലോഡ് ആവശ്യമുണ്ട് ഈ കൺട്രോൾ സർഫേസ്ൻറെ ചലനം വളരെ സൂക്ഷ്മമായിരിക്കണം ഈ ആക്ച്ചുവെറ്റർ നടപ്പിലാക്കാതെ പ്രിസിഷൻ കൈവരിക്കാൻ സാധിക്കുകയില്ല ഇവിടെ ഇത് കൺട്രോൾ സർഫേസ് പ്രവർത്തനമാണ് ആക്ച്ചുവെറ്റർ സ്വയം ഒരു കൺട്രോൾ ലൂപ് ആണ് അവയ്ക്ക് സ്വന്തമായി സെൻസർസും കൺട്രോളർസും ഉണ്ട് ചില അനലോഗ് സിഗ്നൽ പ്രോസസ്സിംഗും ഇവയിൽ കാണാൻ സാധിക്കും ഉദാഹരണത്തിന് കൺട്രോളർസിലെ കൺട്രോൾ ഇൻപുട്ടിൽ നിന്നും ചില ഫ്രീക്വൻസി ഒഴിവാക്കേണ്ടതുണ്ട് എന്ന് കരുതുക അല്ലെങ്കിൽ അവ റസൊണൻസ് വളരെയധികം കമ്പനം തുടങ്ങിയവ സൃഷ്ടിക്കും ഇത്തരം അവസ്ഥയിൽ സിഗ്നൽ പ്രോസസിംഗ് ഉപയോഗിക്കാവുന്നതാണ് ഒരു നോച്ച് ഫിൽറ്റർ ഉപയോഗിച്ച് ഇൻപുട്ടിൽ നിന്നും ഫ്രീക്വൻസി ഫിൽറ്റർ ചെയ്യാവുന്നതാണ് അതിനാൽ സിഗ്നൽ പ്രോസസിംഗ് ചെയ്യാവുന്നതാണ് ഇലക്ട്രിക്കൽ പവർ ആമ്പ്ലിഫിക്കേഷനും ഇവിടെ ആവശ്യമാണ് ഇതിനായി സെർവോ ആംപ്ലിഫയർസ് ഉപയോഗിക്കാം സെർവോ ആംപ്ലിഫയർസ് ദുർബലമായ സിഗ്നൽസ് എടുത്തു കൃത്യമായി ആനുപാതികമായി വളരെയധികം പവർ ആമ്പ്ലിഫിക്കേഷനോടെ വർദ്ധിപ്പിക്കുന്നു വളരെയധികം പവർ ആമ്പ്ലിഫിക്കേഷൻ ആവശ്യമുള്ളതിനാൽ ഘട്ടങ്ങൾ ആയാണ് ഇത് ചെയ്യുന്നത് പവർ ആമ്പ്ലിഫിക്കേഷൻറെ ആദ്യത്തെ ലെവൽ ഇലക്ട്രിക് ലെവലാണ് നിങ്ങൾക്ക് ഒരു ഇലക്ട്രിക് സിഗ്നൽ എടുത്തു അതിൻറെ ഇലക്ട്രിക്കൽ പവർ വർധിപ്പിക്കാം പക്ഷേ അതിനുശേഷം അതിൽ കൂടുതൽ വർദ്ധിപ്പിക്കണമെങ്കിൽ നമുക്ക് വിവിധ രൂപത്തിലുള്ള എനർജിയിലേക്ക് പോകേണ്ടിവരും മോട്ടോറിൽ പ്രവർത്തിക്കുന്ന ആക്ച്ചുവെറ്റർ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ പവർ ആംപ്ലിഫയറിൽ നിന്നും നേരിട്ട് ആയിരിക്കും പ്രവർത്തിപ്പിക്കുക ചിലപ്പോൾ ജോലിക്ക് ഹൈഡ്രോളിക് ന്യൂമാറ്റിക് ഉപകരണങ്ങൾ ഉപയോഗിച്ചും പ്രവർത്തിപ്പിക്കാം ഇതിന് ചില പ്രയോജനങ്ങൾ ഒക്കെ ഉണ്ട് ഹൈഡ്രോളിക്സിനു കുറഞ്ഞ അളവിൽ ഇതിൽ കൂടുതൽ പവർ കൈകാര്യം ചെയ്യാൻ സാധിക്കും ഒരു ചെറിയ ഹൈഡ്രോളിക് മോട്ടോറിൽ വളരെയധികം പവർ കൈകാര്യം ചെയ്യാൻ സാധിക്കും വലിയ പവർ ഉപകരണങ്ങൾ ഉണ്ടാകുമ്പോൾ നാം ഹൈഡ്രോളിക് ന്യൂമാറ്റിക് എന്നിവയാണ് ഉപയോഗിക്കുന്നത് അവയും പവർ ആംപ്ലിഫയറിനെ പോലെയാണ് ഇവ ഇലക്ട്രിക്കൽ സിഗ്നൽ ആണ് ഉപയോഗിക്കുന്നത് അതിനാൽ ഇലക്ട്രോ ഹൈഡ്രോളിക് ഇലക്ട്രോ ന്യൂമാറ്റിക് ആക്ച്ചുവെറ്റർസ് നമുക്കുണ്ട് അവസാനം ഈ സമയത്ത് വളരെയധികം പവർ ഉപയോഗിച്ച് ആവശ്യമായ പ്രോസസിങ് ഇൻപുട്ട് ഉണ്ടായിരിക്കുന്നു ഇനി നമുക്ക് ഒരു ഹൈഡ്രോളിക് എലമെൻറ് ഉണ്ടെങ്കിൽ അത് വാൽവിന്റെ സ്റ്റെമിലാണ് പ്രയോഗിക്കുന്നത് അതിശക്തമായ പ്രഷർ വാൽവിന്റെ സ്റ്റെമിൽ ഉപയോഗിക്കപ്പെടും ഒഴുക്ക് നിയന്ത്രിക്കേണ്ടതുകൊണ്ട് വാൽവ് പ്രധാനമാണ് ഇവിടെ നമുക്ക് നിയന്ത്രിക്കേണ്ടത് ഒഴുക്കിനെ ആണ് ഇതിനായി കൺട്രോൾ വാൽവ് ചലിപ്പിക്കേണ്ടതുണ്ട് ഹൈഡ്രോളിക് സിസ്റ്റത്തിൻറെ സഹായത്തോടെ ആണ് വാൽവ് തുറക്കുകയും അടക്കുകയും ചെയ്യുന്നത് ഈ സെൻസർ സ്റ്റെമിൻറെ സ്ഥാനം അയക്കുന്നു ഇവിടെയാണ് സ്റ്റെമിൻറെ തീരുമാനിച്ചിരിക്കുന്ന സ്ഥാനം ഈ കൺട്രോളർ ഇൻപുട്ട് നൽകും ഇത് ഒരു ക്ലോസ്ഡ് ലൂപ്പിൽ പ്രവർത്തിക്കുന്ന വാൽവ് ആക്ച്ചുവെറ്റർ ആണ് ഇത് പ്ലാന്റിലെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്നു പ്ലാൻറ് താപനിലയെയും മറ്റും നിയന്ത്രിക്കുന്നു ഇത് മനസ്സിലായതിനാൽ ഇനി നമുക്ക് ആക്ച്ചുവെറ്റർൻറെ പ്രവർത്തനം മനസ്സിലാക്കാം ഇൻഡസ്ട്രിയൽ സെൻസർനെപ്പോലെ ആക്ച്ചുവെറ്റർൻറെ കാര്യം നോക്കാം ഇൻഡസ്ട്രിയൽ ആക്ച്ചുവെറ്റർ സിസ്റ്റംസിൽ ഇലക്ട്രോണിക് സിഗ്നൽ പ്രോസസിംഗ് പവർ ആമ്പ്ലിഫിക്കേഷൻ ഇലക്ട്രോ ഹൈഡ്രോളിക് ന്യൂമാറ്റിക് മെക്കാനിക്കൽ എലമെൻസ് മുതലായവ കാണാൻ സാധിക്കും കൃത്യതയ്ക്ക് വേണ്ടിയുള്ള ഫീഡ്ബാക്ക് കൺട്രോൾ കാണാൻ സാധിക്കും ഈ ഉപകരണങ്ങളുടെ എല്ലാം പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഓക്സിലറിസ് കാണാൻ സാധിക്കും ഈ ഉപകരണങ്ങൾ പൊതുവേ പവർ ഡിവൈസസ് ആണ് അതിനാൽ അവയ്ക്ക് ലൂബ്രിക്കേഷൻ കൂളിംഗ് ഫിൽട്ടർറിംഗ് മുതലായ പ്രവർത്തനങ്ങൾക്ക് അധികം ആയിട്ടുള്ള ഓക്സിലറി സിസ്റ്റം ആവശ്യമുണ്ട് ഇതല്ലാതെ വിദൂരമായി പ്രവർത്തിപ്പിക്കാവുന്ന ആക്ച്ചുവെറ്റർകളും ലഭ്യമാണ് പ്രത്യേകിച്ച് താപനിലയങ്ങളിൽ ഈ രീതി കണ്ടുവരുന്നു നിയന്ത്രിക്കാൻ ആളുകൾ ഇല്ലാത്ത സബ്സ്റ്റേഷനുകളിൽ എങ്ങനെയാണ് വിദൂരമായ കൺട്രോൾ സ്റ്റേഷനിൽ നിന്നും സ്വിച്ച് തുറക്കുകയും അടക്കുകയും ചെയ്യുന്നത് റിമോട്ട് കൺട്രോൾ സ്റ്റേഷനിൽ നിന്നും സിഗ്നൽ നൽകുമ്പോൾ സർക്യൂട്ട് ബ്രേക്കർ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നു അങ്ങനെ സർക്യൂട്ട് ബ്രേക്കറിനെ പ്രവർത്തിപ്പിച്ചിരിക്കുന്നു അതേപോലെ സുരക്ഷയ്ക്കായി പലതരത്തിലുള്ള പ്രഷർ റിലീസ് വാൽവ്സും ഇൻറർലോക്ക്സും മറ്റും ഉണ്ടായിരിക്കും ഇവയെല്ലാം വളരെ ശക്തിയേറിയ ഉപകരണങ്ങൾ ആയതിനാൽ ഏതെങ്കിലും തരത്തിൽ പ്രവർത്തനങ്ങൾ തെറ്റിപ്പോയാൽ അപകടം സംഭവിക്കും അതിനാൽ സ്പെഷ്യൽ സിസ്റ്റംസ് ഉപയോഗിച്ചിരിക്കുന്നു ഇവ എനർജി ഉപയോഗിക്കുന്നതുകൊണ്ട് എനർജി ലാഭിക്കാൻ സഹായിക്കുന്ന ചില സ്പെഷ്യൽ സിസ്റ്റംസ് ആ ആക്ച്ചുവെറ്ററിൽ തന്നെ ഉണ്ടാകും ഫ്രീവീലിങ് ചെയ്യുക അനാവശ്യമായ ഉപകരണങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കണ്ടെത്താവുന്നതാണ് പൊതുവേ ഇതൊക്കെയാണ് ഇൻഡസ്ട്രിയൽ ആക്ച്ചുവെറ്ററിൽ കാണാൻ സാധിക്കുക വരും ക്ലാസുകളിൽ പലതരം ഇൻഡസ്ട്രിയൽ ആക്ച്ചുവെറ്ററിനെകുറിച്ച് നമുക്ക് കൂടുതൽ പഠിക്കാം ലെവൽ 0 ലെ സെൻസർസ് നെയും ആക്ച്ചുവെറ്റർസ് നെയും കുറിച്ച് നാം പഠിച്ചുകഴിഞ്ഞു ഇനി നാം ലെവൽ 1 ലേക്ക് വരികയാണ് ഇത് ഒരു ഓട്ടോമാറ്റിക് കൺട്രോൾ ലൂപ് ആണ് ഓട്ടോമാറ്റിക് കൺട്രോൾ ലൂപ് ഇതിനുമുമ്പും നാം ചർച്ച ചെയ്തിട്ടുണ്ട് ആ സമയത്ത് അത് ലൂപ്പിലെ സ്ട്രക്ച്ചറൽ എലമെന്റ്സിനെ കുറിച്ചാണ് പഠിച്ചത് ലൂപ് എന്തൊക്കെ ചെയ്യുന്നു ലൂപിന്റെ ജോലി എന്താണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ശ്രദ്ധിക്കാം സെറ്റ് പോയൻറ് നിലനിർത്തുക എന്നതാണ് കൺട്രോളറിൻറെ ജോലി ഒരുതവണ ക്രമപ്പെടുത്തിയാൽ ഇത് എങ്ങനെയാണ് മാറിപ്പോകുന്നത് തടസ്സങ്ങൾ കാരണം ആണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഉദാഹരണത്തിന് നിങ്ങൾ ലോഹം മുറിക്കുകയാണെന്ന് കരുതുക ഉപയോഗിക്കുന്ന ലോഹം ഹോമോജനസ് അല്ല അഥവാ ഏകാത്മകത്വം ഉള്ളതല്ല കട്ടിങിനുള്ള വേഗത പിളർപ്പിനെ ആഴം ഫീഡ് തുടങ്ങിയവ കൃത്യമായി സ്ഥാപിച്ചിരിക്കുന്നു എന്നു കരുതുക മെഷീൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ വസ്തുവിൻറെ ചില ഭാഗങ്ങളിൽ സാന്ദ്രത വ്യത്യസ്തം ആണെങ്കിൽ വേഗത കുറഞ്ഞേക്കും ഇങ്ങനെ സംഭവിക്കുമ്പോൾ കട്ടിംഗ്ൻറെ ഗുണനിലവാരം കുറയുന്നു ഇതുകൂടാതെ ഏതുതരം അസംസ്കൃത വസ്തുവാണ് ലഭിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു നിയന്ത്രണവും നമുക്കില്ല അടുത്ത ഉദാഹരണത്തിനായി ഒരു റോളിംഗ് മില്ലിൻറെ കാര്യമെടുക്കുക ഇവിടെ ഷാഫ്റ്റിലെ ലോഡ് രണ്ടു കാര്യങ്ങളെ ആശ്രയിച്ചാണിരിക്കുന്നത് റോൾ ചെയ്യുന്ന വസ്തു താപനില എന്നിവയാണവ ഹോട്ട് റോളിങിനെകുറിച്ചാണ് നാം സംസാരിക്കുന്നത് അതിനാൽ താപനിലയിൽ മാറ്റം വരുത്തിയാൽ മോട്ടോറിലെ ലോഡിൽ ക്രമാതീതമായ മാറ്റം വരും ഇത് വേഗതയിൽ മാറ്റം വരുത്തും ഇത് അനുവദിക്കാൻ സാധ്യമല്ല ഞാൻ പറയാൻ ശ്രമിക്കുന്നത് എന്തെന്നാൽ ഒരു നിശ്ചിതവേഗത നിങ്ങൾ തീരുമാനിച്ചാൽ ലോഡിലെ തടസ്സങ്ങൾ കാരണം ഇത് കൈവരിക്കാൻ സാധിക്കണമെന്നില്ല ഇതു ഉറപ്പാക്കാനാണ് ഫീഡ്ബാക്ക് കൺട്രോൾ ഉപയോഗിക്കുന്നത് ഇതുകൂടാതെ സെൻസർ നോയ്സ് കാരണം ഫീഡ്ബാക്ക് തെറ്റ് ആകാനും സാധ്യതയുണ്ട് ഈ രണ്ടു കാരണങ്ങൾ മൂലം കൺട്രോൾ പ്രശ്നം നിസാരവൽക്കരിക്കാൻ ആകില്ല ഇതുകൂടാതെ മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാകാം ഉദാഹരണത്തിന് സാധാരണയായി കാണുന്ന മറ്റൊരു പ്രശ്നമാണ് ആക്ച്ചുവെറ്റർസ് സാച്ചുറേഷൻ കൺട്രോളറിന് ആവശ്യമുള്ളത്ര ഇൻപുട്ട് ആക്ച്ചുവെറ്ററിന് പ്ലാൻറ്റിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് യഥാർത്ഥത്തിൽ കൺട്രോളർ യുക്തിരഹിതമായ ആവശ്യങ്ങളാണ് ആക്ച്ചുവെറ്ററിന് നൽകുന്നത് ഇക്കാരണങ്ങൾ കൊണ്ടുതന്നെ കൺട്രോൾ പ്രശ്നം പ്രാഥമികമായ ഒന്നല്ല ഇനി നമുക്ക് ഇൻഡസ്ട്രിയൽ കൺട്രോളറിൽ കാണുന്ന പലതരം കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാം ഓട്ടോമാറ്റിക് കൺട്രോൾൻറെ കാര്യമെടുത്താൽ ഇവ രണ്ടുതരത്തിലുണ്ട് ആദ്യത്തേത് കണ്ടിന്യൂസ് വേരിയബിൾ കൺട്രോൾ ആണ് ഇത് നമുക്ക് പരിചിതമാണ് നമ്മളിൽ അധികംപേരും ഓട്ടോമാറ്റിക് കൺട്രോൾ സിസ്റ്റം അല്ലെങ്കിൽ കൺട്രോൾ സിസ്റ്റംസ് അല്ലെങ്കിൽ കൺട്രോൾ എൻജിനീയറിങ് എന്നൊക്കെയുള്ള കോഴ്സ് ചെയ്തിട്ടുണ്ടാവും ഇവിടെയൊക്കെ നാം പ്രധാനമായും കണ്ടിന്യൂസ് വേരിയബിൾ കൺട്രോൾ ആണ് പഠിക്കുന്നത് ഇതിൽ ഒരു വേരിയബിളിൻറെ വാല്യൂ നിയന്ത്രിക്കാൻ ആണ് താൽപര്യപ്പെടുന്നത് ഉദാഹരണത്തിന് താപനില 200˚C എന്നു കരുതുക താപനില ഒരു കണ്ടിന്യൂസ് വേരിയബിൾ ആണ് സമയത്തിനനുസരിച്ച് വേരിയബിളിൻറെ വാല്യൂവിൽ മാറ്റം വരും വേരിയബിളിന് ഏതു വാല്യൂ വേണമെങ്കിലും സ്വീകരിക്കാവുന്നതാണ് ഇവിടെ നാം അനലോഗ് കണ്ടിന്യൂസ് പ്രോസസ് വേരിയബിൾ തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത് അത് പൊതുവേ ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ ആണ് പ്രയോഗിക്കുന്നത് പ്രധാന ലക്ഷ്യം സെറ്റ് പോയിൻറ്നെ ട്രാക്ക് ചെയ്യുക അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുക എന്നതാണ് അതായത് ഔട്ട്പുട്ട് സെറ്റ് പോയിൻറ്നെ പിന്തുടരണം തടസ്സങ്ങളെ പരിഗണിക്കാതെ സെറ്റ് പോയിൻറ് മാറുന്നുണ്ടെങ്കിൽ അതിനെ ട്രാക്ക് ചെയ്യണം സെറ്റ് പോയിൻറ് കോൺസ്റ്റൻറ് ആണെങ്കിൽ അതിനെ ഹോൾഡ് ചെയ്യണം സെൻസർലെയും ലോഡ് ലെയും ആക്ച്ച്ചുവെറ്ററിലെയും തടസ്സങ്ങളെ അവഗണിക്കാൻ ഇതിന് സാധിക്കണം ഇതിനായി 80 85 ഇൽ കൂടുതൽ ഇൻഡസ്ട്രിയൽ കൺട്രോളർസും പി ഐ ഡി കൺട്രോളർ എന്ന ഗണത്തിലാണ് ഉൾപ്പെടുന്നത് ഇവയിൽ പൊതുവായ കൺട്രോൾ അൽഗോരിതം ആണ് ഉപയോഗിക്കുന്നത് ചില കാര്യങ്ങളിൽ പ്രത്യേക ആവശ്യത്തിനുള്ള സ്പെഷ്യൽ പർപ്പസ് കൺട്രോളർ ഉപയോഗിക്കുന്നുണ്ട് ഇവ പൊതുവായിട്ടുള്ളത് ആയതിനാൽ പ്രത്യേക പ്ലാന്റിനു വേണ്ടി ഇവയെ ട്യൂൺ ചെയ്യേണ്ടതുണ്ട് പ്രത്യേക പ്ലാന്റിനു വേണ്ടി കൺട്രോളർ ഗെയിൻസ് നിശ്ചയിക്കുന്ന ഈ പ്രക്രിയയെ ട്യൂണിങ് എന്ന് വിളിക്കുന്നു അതായത് ഈ കൺട്രോളർസ് ട്യൂൺ ചെയ്യാവുന്നതാണ് ഇവയ്ക്ക് സമയാസമയം ട്യൂണിങ് ആവശ്യമുണ്ട് പൊതുവേ ഒരു ഡിജിറ്റൽ റിയൽ ടൈം സിസ്റ്റത്തിലാണ് ഇത് നടപ്പിലാക്കുന്നത് പൊതുവേ ഇവ ഇന്റെർഫേസും സെൻസർസും ആക്ച്ചുവേറ്ററിനു വേണ്ടിയുള്ള ഇന്റെർഫേസും ഒക്കെയുള്ള പ്രൊസസർ സിസ്റ്റം ആയിരിക്കും അതിനാൽ അവ മൈക്രോപ്രോസസർ അധിഷ്ഠിതമായ സിസ്റ്റം ആണ് അവ വളരെ ചിലവു കുറഞ്ഞതും ആണ് പൊതുവേ ഒരു കൺട്രോൾ സിസ്റ്റം അതു കൺട്രോൾ ചെയ്യുന്ന പ്ലാന്റിൻറെ 5 ശതമാനത്തിലും ചെലവ് കുറഞ്ഞതാണ് വളരെ നിർണായകമായ ജോലിയാണ് കൺട്രോളർ ചെയ്യുന്നതെങ്കിലും അവ വളരെ ചെലവ് കുറഞ്ഞതാണ് ഇതാണ് നമുക്ക് ഓട്ടോമാറ്റിക് കണ്ടിന്യൂസ് പ്രോസസ് വേരിയബിളിൽ കാണാൻ സാധിക്കുക അടുത്തതായി സീക്വൻസ് അഥവാ ഡിസ്ക്രീറ്റ് ഇവൻറ് കൺട്രോൾ ആണുള്ളത് ഡിസ്ക്രീറ്റ് ഇവൻറ് കണ്ട്രോളിൽ ഡിസ്ക്രീറ്റ് വാല്യൂഡ് പ്രോസസ് വേരിയബിളിനെകുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഇവയ്ക്ക് കണ്ടിന്യൂസ് വാല്യൂസ് സ്വീകരിക്കാൻ സാധിക്കില്ല ഓൺ ആൻഡ് ഓഫ് അല്ലെങ്കിൽ ലോ മീഡിയം ഹൈ low medium high ഇങ്ങനെയുള്ള വാല്യൂസ് ആണ് സ്വീകരിക്കുക എല്ലാം കോൺസ്റ്റൻറ് വാല്യൂസ് ആണ് ഇവയെ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ നാം സീക്വൻസ്സിനെയാണ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് അതായത് ഒന്നിനുശേഷം അടുത്തതായി എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈമിംഗ് കൺട്രോൾ ചെയ്യാം അതായത് കൃത്യമായി എപ്പോഴാണ് വാൽവ് അടയ്ക്കുന്നത് ഉദാഹരണത്തിന് വാൽവ് തുറന്നു കഴിഞ്ഞ് അഞ്ചു മിനിറ്റിനു ശേഷം പമ്പ് സ്വിച്ച് ഓൺ ചെയ്യണം അതേപോലെ പമ്പ് സ്വിച്ച് ഓഫ് ചെയ്തു കഴിഞ്ഞു രണ്ട് മിനിറ്റിനുശേഷം വാൽവ് അടയ്ക്കണം ഇത്തരം കൺട്രോളിനെ ഡിസ്ക്രീറ്റ് ഇവൻന്റ് കൺട്രോൾ എന്ന് വിളിക്കുന്നു ഇവ ഡിസ്ക്രീറ്റ് സെൻസർസ് ആണ് ഉപയോഗിക്കുന്നത് ഉദാഹരണത്തിന് സ്ഥാനമാറ്റം മനസ്സിലാക്കാനുള്ള ലിമിറ്റ് സെൻസർ മർദ്ദം കുറഞ്ഞോ എന്നറിയാനുള്ള സെൻസർ കൺവെയർ ബെൽറ്റിൽ ഘടകങ്ങൾ വച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ള സെൻസർ മുതലായവ നിരവധി ഇൻറർലോക്ക് അലാറം തുടങ്ങിയവയൊക്കെ ഉപയോഗിക്കുന്നതിനാൽ ഇവയുടെ പ്രോസസ്സിംഗ് അവശ്യമാണ് ഡിസ്ക്രീറ്റ് ഇവൻറ് കൺട്രോളർഇൽ ഉപയോഗിക്കുന്ന ഹാർഡ്വെയറുകൾ പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളർ ചിലപ്പോൾ ഇൻഡസ്ട്രിയൽ പി സിസ് industrial PC's മറ്റു ചിലപ്പോൾ പ്രത്യേക ആവശ്യങ്ങൾക്കായി നിയോഗിച്ച പ്രൊസസ്സർസ് തുടങ്ങിയവ ആകാം ഇവയ്ക്ക് ട്യൂണിംഗ് ആവശ്യമില്ല ഇവിടെ സ്റ്റാറ്റസ് സീക്വൻസിംഗും ടൈമിംഗ് കണ്ട്രോളും ഉപയോഗിക്കുന്നതിനാൽ കൺട്രോൾ ലോജിക് മാറുമ്പോൾ അല്ലാതെ ട്യൂണിംഗ് ആവശ്യമില്ല ഇത്രയും ആണ് ഓട്ടോമാറ്റിക് കൺട്രോളിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അടുത്തതായി സൂപ്പർവൈസറി കൺട്രോൾ കൂടി ചർച്ച ചെയ്തു നമുക്ക് ഇന്നത്തേക്ക് നിർത്താം പ്രൊഡക്ഷൻ കൺട്രോൾ എൻറർപ്രൈസ് കണ്ട്രോൾ എന്നീ ഫംഗ്ഷൻസ് ഈ കോഴ്സിൽ വിശദമായി നാം പഠിക്കുന്നില്ല ഇവ ഈ കോഴ്സിലെ മറ്റേതെങ്കിലും പാഠത്തിൽ പരിചയപ്പെടുത്താം ഈ ചിത്രം കാണുക ഇത് സൂപ്പർവൈസറി കൺട്രോളർ എന്താണെന്ന് വിശദീകരിക്കുന്നു മുൻപേ നാം ഒരു കൺട്രോൾ ലൂപ് കണ്ടിരുന്നു ഇതാണ് നമുക്ക് കണ്ട്രോൾ ചെയ്യേണ്ട പ്രോസസ്സ് ഇതാണ് കൺട്രോൾ ലൂപിൻറെ ഫീഡ്ബാക്ക് പക്ഷേ പക്ഷേ ഇവിടെ നമുക്ക് അനവധി കൺട്രോളർസ് ഉണ്ട് സൂപ്പർവൈസറി കൺട്രോളർ നിർദ്ദേശങ്ങളും സെറ്റ് പോയിന്റും നൽകുന്നു ഓട്ടോമാറ്റിക് കൺട്രോളർ താപനില നിലനിർത്തുക മാത്രമാണ് ചെയ്യുന്നത് 200˚C താപനില നിലനിർത്തണം എന്നു പറഞ്ഞാൽ ഓട്ടോമാറ്റിക് കൺട്രോളർ അത് ചെയ്യും പക്ഷേ 200˚C ആണോ 115˚C ആണോ നിലനിർത്തേണ്ടത് എന്ന് ഓട്ടോമാറ്റിക് കൺട്രോളർനു അറിയുകയില്ല ഈ വിവരം സൂപ്പർവൈസറി കൺട്രോളർഇൽ നിന്നും വരേണ്ടതാണ് അതായത് ഇവ സെറ്റ് പോയിൻറ് നൽകുന്നു നാം എപ്പോഴും ഒരേ കൺട്രോളർ ഉപയോഗിക്കുന്നില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉദാഹരണത്തിന് തണുപ്പുള്ള ഒരു അവസ്ഥയിൽ പ്ലാൻറ് ചലിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കൺട്രോളർ ആയിരിക്കില്ല പ്ലാൻറ് പ്രവർത്തനരഹിതമാക്കാൻ ഉപയോഗിക്കുന്ന കൺട്രോളർ അതായത് ഒന്നിലധികം കൺട്രോളർസ് ഉണ്ടായിരിക്കും പ്രവർത്തനം ആരംഭിക്കാൻ ഒരു കൺട്രോളർ അത് അവസാനിപ്പിക്കാൻ മറ്റൊരു കൺട്രോളർ സാധാരണ രീതിയിൽ പ്രവർത്തനം നടത്താൻ മറ്റൊരു കൺട്രോളർ എന്നിങ്ങനെയാണ് കൺട്രോളർസ് ഉപയോഗിക്കുന്നത് ഏത് കൺട്രോളർ ആണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള നിർദ്ദേശം സൂപ്പർവൈസറി കൺട്രോളർ നിന്നുമാണ് വരുന്നത് ഇവ പല തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു ഉദാഹരണത്തിന് ഒരു അപകടമോ ഉപകരണങ്ങൾക്ക് തകരാറോ വരികയാണെങ്കിൽ അടിയന്തരമായി പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വരും സൂപ്പർവൈസറി കൺട്രോളർ തകരാറ് കൃത്യമായി മനസ്സിലാക്കണം പ്രൊസസ്സ് ഇൻപുട്ട്സും ഔട്ട്പുട്ട്സും ഉപയോഗിച്ച് സിസ്റ്റം കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയാൻ വളരെയധികം കണക്കുകൂട്ടലുകൾ സൂപ്പർവൈസറി കൺട്രോളർ നടത്തുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നം കണ്ടെത്തിയാൽ പെട്ടെന്നുതന്നെ ഏതുതരം കൺട്രോളർ എപ്പോൾ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ച് നിർദ്ദേശങ്ങൾ നൽകുന്നു അതിനാൽ യഥാർത്ഥത്തിൽ സൂപ്പർവൈസറി കൺട്രോളർ നിരവധി ഓട്ടമാറ്റിക് കൺട്രോളർസിനെ നിയന്ത്രിക്കുന്നുണ്ട് ഇത്രയും പറഞ്ഞു കൊണ്ട് സൂപ്പർവൈസറി കൺട്രോളർൻറെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ കാര്യം സെറ്റ് പോയന്റ് കമ്പ്യൂട്ടേഷൻ ആണ് എനർജി ഗുണനിലവാരം നിർമ്മാണത്തിൻറെ അളവ് എന്നിവ കണക്കിലെടുത്തുകൊണ്ട് ഉല്പാദനത്തിൻറെ കാര്യത്തിൽ ഇത് വളരെ പ്രധാനമാണ് കൃത്യമായ സെറ്റ് പോയിൻറ് നൽകിയില്ലെങ്കിൽ ഒരു നിശ്ചിത ഗുണനിലവാരത്തിൽ ഉള്ള ഉൽപന്നം ലഭിക്കുകയുമില്ല വളരെയധികം എനർജി നഷ്ടപ്പെടുത്തുകയും ചെയ്യും അതോടൊപ്പം ഉൽപാദനത്തിൻറെ അളവ് കുറയും അതിനാൽ സൂപ്പർവൈസറി കൺട്രോൾ ഉല്പാദനത്തിൻറെ കാര്യത്തിൽ വളരെ നിർണായകമാണ് വളരെ അനുഭവസമ്പത്തുള്ള ഓപ്പറേറ്റർമാർ നേരിട്ടാണ് ഏറെയും ഇത് പ്രവർത്തിപ്പിക്കുന്നത് ഇവ സിസ്റ്റത്തെ ചലിപ്പിക്കുക പ്രവർത്തന രഹിതമാക്കുക അടിയന്തിരമായ പ്രവർത്തനങ്ങൾ നടത്തുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നു ഇതുകൂടാതെ കൺട്രോൾ പുനക്രമീകരിക്കുക ട്യൂണിങ് ചെയ്യുക എന്നീ കാര്യങ്ങൾ ചെയ്യുന്നു കൺട്രോളർനെ ഇടയ്ക്കിടെ മാറ്റേണ്ടതായി വരും ഇത് നിർവഹണത്തിൻറെ മേൽനോട്ടം വഹിക്കുന്നു ലൂപ്പ് ശരിയായി ട്യൂൺ ചെയ്തിട്ടുണ്ടോ സെൻസറിൽ എന്തെങ്കിലും തകരാറുണ്ടോ എന്നീ കാര്യങ്ങളൊക്കെ നിരന്തരം പരിശോധിക്കുന്നു ഇത് ഓപ്പറേറ്റർന് ഇൻറർഫേസ് നൽകുന്നു ഓപ്പറേറ്റർനു പരിശോധിക്കാൻ പാകത്തിലുള്ള ഗ്രാഫ് നൽകുന്നു ഒരു ഉപകരണത്തിന് പ്രത്യേകമായാണ് ഇവയെല്ലാം ചെയ്യുന്നത് അല്ലാതെ ഇത് ചെയ്യാൻ സാധ്യമല്ല ഞാൻ പറഞ്ഞതുപോലെ ഇവ ഹാർഡ് സോഫ്റ്റ് റിയൽ ടൈം hard soft real time സാഹചര്യങ്ങളിലാണ് പ്രവർത്തിക്കുന്നത് ഇവ പ്രൊസെസ്സിനു പ്രത്യേകമായി ഉള്ളതിനാൽ വളരെ ചിലവേറിയതാണ് ഈ സ്ലൈഡ് മുഴുവനായും നമുക്ക് ഒഴിവാക്കാം ഇതിൽ ചില ഘടകങ്ങൾ ഓൺലൈൻ ആയിരിക്കാം പക്ഷേ നോൺ റിയൽ ടൈം ആണ് അവസാനമായി നമുക്ക് അധ്യായത്തെ അവലോകനം ചെയ്യാം ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻറെ ആരോഹണ ക്രമത്തിലുള്ള ഘടന നാം മനസ്സിലാക്കിയിരിക്കുന്നു ആദ്യമായി ലെവൽ 0 ഇൽ നാം സെൻസർസ് ആക്ച്ചുവേറ്റർസ് എന്നിവയെക്കുറിച്ചും ഇവയുടെ സാങ്കേതികവിദ്യകളെ കുറിച്ചും മനസ്സിലാക്കി അടുത്തതായി ലെവൽ 1 ഇൽ ഓട്ടോമാറ്റിക് കൺട്രോൾനെകുറിച്ചും കണ്ടിന്യൂസ് വേരിയബിൾ ഡിസ്ക്രീറ്റ് ഇവൻറ് കൺട്രോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്നിവയെക്കുറിച്ചും മനസ്സിലാക്കി ലെവൽ 2 ഇൽ സൂപ്പർവൈസറി കൺട്രോൾ നെക്കുറിച്ചും ഇത് ഓട്ടമാറ്റിക് കൺട്രോളിൽ നിന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നും മനസ്സിലാക്കി അവസാനമായി പ്രൊഡക്ഷൻ കൺട്രോൾനെകുറിച്ച് ദ്രുതഗതിയിൽ നാം മനസ്സിലാക്കി ബിസിനസ് മാനേജ്മെൻറ് പ്രവർത്തനം ആയതിനാൽ എൻറർപ്രൈസ് കണ്ട്രോൾനെകുറിച്ച് പഠിക്കാൻ നാം ഉദ്ദേശിക്കുന്നില്ല ഇനി നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ഉള്ള കുറച്ചു കാര്യങ്ങൾ ആണ് കണ്ടിന്യൂസ് വേരിയബിൾ ഡിസ്ക്രീറ്റ് ഇവൻറ് കൺട്രോൾ ഇവ തമ്മിലുള്ള രണ്ടോ മൂന്നോ വ്യത്യാസങ്ങൾ കണ്ടെത്തുക അടുത്തതായി ഒരു ഇൻഡസ്ട്രിയൽ സെൻസർൻറെ രൂപരേഖ വരച്ച് ഒരു ഉദാഹരണം നൽകുക ഒരു ഇൻഡസ്ട്രിയൽ സെൻസർ കണ്ടെത്തി അവയുടെ ഘടകങ്ങളും ഉപഘടകങ്ങളും അടയാളപ്പെടുത്തുക ഇവയുടെ ധർമ്മങ്ങൾ എന്താണെന്ന് പറയുക ഓട്ടോമാറ്റിക് കൺട്രോൾ നിർവചിച്ച് സൂപ്പർവൈസറി കൺട്രോളിൽ നിന്നും ഇത് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് പറയുക അവസാനമായി ഓട്ടോമേഷൻ പിരമിഡ് ലെ ഓരോ ലെവലിന്റെയും മൂന്ന് പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുക ഇവയാണു നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള കാര്യങ്ങൾ